അതിനാൽ പോർട്ട് കറന്റ്കളും പോർട്ട് വോൾട്ടേജുകളും തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ചാണ് നമ്മൾ രണ്ട് പോർട്ടുകളും വിവരിച്ചത് അവ ലീനിയർ കോമ്പിനേഷനുകളായി മാറുന്നു ചില സന്ദർഭങ്ങളിൽ ഒരേ ബന്ധങ്ങൾക്ക് ഒരു സർക്യൂട്ട് പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നത് ഉപയോഗപ്രദമാണ് അതാണ് ഈ പാഠത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിനാൽ നമുക്ക് രണ്ട് പോർട്ട് ഉണ്ടെന്ന് പറയാം I1 എന്നത് y11 V1 y12 V2 എന്നും I2 എന്നത് y21 V1 y22 V2 എന്നും പറയുന്ന y പാരാമീറ്ററുകൾ ഉപയോഗിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഈ സമവാക്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു തത്തുല്യ സർക്യൂട്ട് ഉപയോഗപ്രദമാകും ഇതും സമാനമാണ് നിങ്ങൾക്ക് ഉള്ളിൽ രേഖീയ മൂലകങ്ങളുള്ള ഒരു ബോക്സ് നൽകിയിട്ടുണ്ടെന്ന് പറയാം തുടർന്ന് നിങ്ങൾക്ക് ബന്ധങ്ങൾ ബീജഗണിതമായി നൽകാം V1 തുല്യമായ I1 × R തുല്യമോ അല്ലെങ്കിൽ തത്തുല്യമായോ നിങ്ങൾക്ക് പറയാം ഇത് ടെർമിനൽ A ഉം ടെർമിനൽ B ഉം ആണെന്ന് പറയാം A B എന്നിവയ്ക്കിടയിൽ നിങ്ങൾക്ക് ഈ തുല്യമായ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം പകരം ഈ ചിത്രം കാണിക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് സമാനമാണ് സമവാക്യങ്ങൾ കാണിക്കുന്നതിനുപകരം നമ്മൾ ചിത്രം കാണിക്കും അതിനാൽ ഈ നിബന്ധനകളിൽ ഓരോന്നിനും അനുബന്ധമായ ഒരു ഘടകം ഉണ്ടായിരിക്കും ഇത് പോർട്ട് 1 ആണെന്ന് പറയാം നമുക്ക് അതിൽ ഉടനീളം V1 ഉണ്ട് പോർട്ട് 1 ലേക്ക് ഒഴുകുന്ന കറന്റ് y11 × V1 y12 × V2 എന്ന രണ്ട് ഭാഗങ്ങളുടെ ആകെത്തുകയാണ് ആദ്യം നമുക്ക് ഈ y11 × V1 നോക്കാം അതിനാൽ ഇത് പോർട്ട് 1 ലേക്ക് ഒഴുകുന്നു ഒരേ രണ്ട് ടെർമിനലുകൾ 1 1 പ്രൈം എന്നിവയ്ക്കിടയിലുള്ള വോൾട്ടേജുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു വ്യക്തമായും നിങ്ങൾക്ക് ഈ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ I1 y11 × V1 ന് തുല്യമാണെന്ന് പറയാം അത് ഒരു ചാലകതയോ റെസിസ്റ്റൻസ് ആയോ പൊരുത്തപ്പെടും അതിനാൽ എനിക്ക് y11 മൂല്യമുള്ള ഒരു ചാലകത ഉണ്ടെങ്കിൽ അത് ഒരു കറന്റ് ഉണ്ടാകും അത് y11 × V1 ആണ് കാരണം അത് V1 ൽ സ്ഥാപിച്ചിരിക്കുന്നു ഈ ചാലകതയിലുടനീളം നമുക്ക് ഒരു വോൾട്ടേജ് V1 ഉണ്ട് ഇപ്പോൾ നമുക്ക് രണ്ടാം ഭാഗം y12 × V 2 ഉണ്ടായിരിക്കുക അതിനാൽ ഇത് 2 2 പ്രൈം ആണ് V2 അവിടെയുണ്ട് അതിനാൽ പോർട്ട് 2 ലെ വോൾട്ടേജിന് മറുപടിയായി പോർട്ട് 1 ൽ ഒരു കറന്റ് ഉണ്ട് അതിനാൽ ഇത് വ്യക്തമായും ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സ്രോതസ്സാണ് അതിന്റെ മൂല്യം y12 V2 നൽകുന്നു അതുപോലെ നിങ്ങൾ രണ്ടാമത്തെ സമവാക്യം നോക്കുകയാണെങ്കിൽ നമുക്ക് I2 y22 × V2 ആണ് അത് അതിന്റെ ഒരു ഭാഗമാണ് അത് പോർട്ട് 2 ലെ വോൾട്ടേജും പോർട്ട് 2 ലെ കറന്റും തമ്മിലുള്ള ബന്ധമാണ് അതിനാൽ ഇത് y22 എന്ന മൂല്യമുള്ള ഒരു ചാലകത്താൽ പ്രതിനിധീകരിക്കുന്നു ഈ അവസാന ഭാഗം y21 × V1 പ്രതിനിധീകരിക്കുന്നു ഇതുപോലുള്ള നിയന്ത്രിത സ്രോതസ്സ് വഴി ഇത് I2 ആണ് അതിനാൽ ഇത് പോർട്ട് 2 ൽ നിന്ന് എടുത്ത കറന്റാണ് ഇത് V1 ന് ആനുപാതികമാണ് അത് സർക്യൂട്ടിലെ മറ്റെവിടെയെങ്കിലും ഉള്ള വോൾട്ടേജാണ് അതിനാൽ ഇത് മോഡൽ y ആണ് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സ്രോതസ്സാണ് അതിന്റെ മൂല്യം y21 V1 ആണ് അതിനാൽ ഈ നാല് മൂലകങ്ങൾ 2 ചാലകതകളും 2 നിയന്ത്രിത സ്രോതസ്സുകളും ഉള്ള ഈ ചിത്രം ഈ സമവാക്യം എന്താണ് പറയുന്നതെന്ന് കൃത്യമായി പറയുന്നു ചിലത് × നിങ്ങൾ സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുമ്പോൾ രണ്ട് പോർട്ടുകൾക്ക് പകരം ഈ ചിത്രം ഇടുന്നത് ഉപയോഗപ്രദമാണ് ചിലത് × സമവാക്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുപകരം നിങ്ങൾ ചിത്രം ഇടുമ്പോൾ ഈ ബന്ധങ്ങളിൽ ചിലത് വളരെ വ്യക്തമാകും ഇപ്പോൾ നാല് തരത്തിലുള്ള പരാമീറ്ററുകൾക്കും സമാനമായ കാര്യങ്ങൾ നിലവിലുണ്ട് അതായത് നമ്മൾ അതാണ് കാണാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് പോർട്ടുകളിലേക്കുള്ള z പാരാമീറ്റർ പ്രാതിനിധ്യം നമ്മൾ പരിഗണിക്കുന്നു ഇത് നിങ്ങൾക്ക് V1 V2 എന്നിവ I1 I2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനുകളായി നൽകുന്നു അതിനാൽ ഇത് പോർട്ട് 1 ആണെന്നും ഒരു കറന്റ് I1 ആ പോർട്ടിലേക്ക് ഒഴുകുന്നുവെന്നും പറയാം നമ്മൾക്ക് കുറുകെ V1 ഉണ്ട് V1 എന്നത് രണ്ട് അളവുകളുടെ ആകെത്തുകയാണെന്ന് നാം കാണുന്നു അതായത് ഈ തുക സാക്ഷാത്കരിക്കുന്നതിന് സീരിയലിൽ രണ്ട് വോൾട്ടേജ് ഡ്രോപ്പുകൾ ഉണ്ടായിരിക്കണം ഇപ്പോൾ ആദ്യത്തേത് z11 × I1 ആണ് അത് പോർട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയ്ക്ക് ആനുപാതികമായ ഒരു വോൾട്ടേജ് ഡ്രോപ്പാണ് അതിനാൽ എനിക്ക് z11 മൂല്യമുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ഉടനീളമുള്ള വോൾട്ടേജ് z11 × I1 ആയിരിക്കും കാരണം I1 ഒഴുകുന്നത് z11 ലൂടെയാണ് ഇപ്പോൾ അതിന്റെ രണ്ടാം ഭാഗം z 2 × I2 ആണ് അത് പോർട്ട് 2 ൽ ഉള്ള സർക്യൂട്ടിലെ മറ്റെവിടെയെങ്കിലും ഉള്ള കറന്റിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് രണ്ടാമത്തെ പോർട്ട് V2 കുറുകെയുണ്ട് അതിലൂടെ I2 ഉണ്ട് അതിനാൽ ഇതിന്റെ പരമ്പരയിൽ z11 മൂല്യത്തിന്റെ റെസിസ്റ്റൻസ് നമുക്ക് z12 I2 ഉണ്ടായിരിക്കും അതുപോലെ രണ്ടാമത്തെ സമവാക്യത്തിന് നമുക്ക് രണ്ട് വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ഒരു ശ്രേണി സംയോജനമുണ്ട് ഒന്ന് z21 × I1 ആണ് കാരണം ഇത് മറ്റെവിടെയെങ്കിലും ഉള്ള കറന്റിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾക്ക് കറന്റ് നിയന്ത്രിത വോൾട്ടേജ് ഉറവിടമുണ്ട് അതിന്റെ മൂല്യം z21 × I1 ആണ് അതിന്റെ ശ്രേണിയിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് z22 ഉണ്ട് കാരണം I2 ആ z22 ലൂടെ ഒഴുകുന്നു ഇത് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് സൃഷ്ടിക്കുന്നു ഇത് z22 I2 ആണ് അതിനാൽ ഈ സമവാക്യങ്ങളുടെ കൂട്ടം പോലെ പോർട്ട് വോൾട്ടേജുകളും പോർട്ട് കറന്റ്കളും തമ്മിലുള്ള അതേ ബന്ധങ്ങൾ ഈ തുല്യമായ സർക്യൂട്ട് വീണ്ടും നടപ്പിലാക്കുന്നു ഈ സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നതിനുപകരം ഈ ചിത്രം എഴുതുന്നത് ഉപയോഗപ്രദമാണ് തുടർന്ന് സർക്യൂട്ടിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മറ്റെന്തെങ്കിലും ചേർത്ത് നിങ്ങളുടെ കണക്കുകൂട്ടലുകളുമായി മുന്നോട്ട് പോകാം ഇപ്പോൾ രണ്ട് പോർട്ടുകളുടെ h പാരാമീറ്റർ പ്രാതിനിധ്യം നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് വീണ്ടും രണ്ട് സമവാക്യങ്ങളുണ്ട് വോൾട്ടേജ് രണ്ട് അളവുകളുടെ ആകെത്തുക ആയതിനാൽ V1 എന്നത് രണ്ട് അളവുകളുടെ ആകെത്തുകയാണ് നമുക്ക് ഇവ ഓരോന്നും വ്യക്തിഗത വോൾട്ടേജ് ഡ്രോപ്പുകളായി കണക്കാക്കാം അത് V1 രൂപപ്പെടുത്തുന്നതിന് ശ്രേണിയിൽ ദൃശ്യമാകുന്നു രണ്ടാമത്തെ സമവാക്യം I2 ൽ ഒരു കറന്റ് രണ്ട് അളവുകളുടെ ആകെത്തുകയാണ് കാരണം ഈ രണ്ട് കറന്റ്കളും ഇത് നൽകുന്നതിന് നിങ്ങൾക്ക് ചിന്തിക്കാനാകും അതിനാൽ ഹൈബ്രിഡ് പാരാമീറ്ററുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തുല്യമായ സർക്യൂട്ടും ഹൈബ്രിഡ് ആയിരിക്കും ഒരു വശത്ത് സീരീസ് ശാഖകളും മറുവശത്ത് സമാന്തര ശാഖകളും ഉണ്ടാകും അതിനാൽ ഇത് പോർട്ട് 1 ആണെന്നിരിക്കട്ടെ അതിന് കുറുകെ V1 ഉള്ളതും അതിലൂടെ I1 ഉം ഇതിലൂടെ V2 ഉള്ള പോർട്ട് 2 ഉം അതിലൂടെ I2 ഉം ആണ് അതിനാൽ V1 എന്നത് ഈ രണ്ട് ഡ്രോപ്പുകളുടെ ആകെത്തുകയാണ് അതിനാൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട് അതിന്റെ മൂല്യം h11 ആണ് നമ്മൾക്ക് ഒരു നിയന്ത്രിത സ്രോതസ്സ് V1 ആണ് ഇത് V2 നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സ്രോതസ്സാണ് അതിന്റെ ആനുപാതിക സ്ഥിരതയാണ് h12 അല്ലെങ്കിൽ അതിന്റെ മൂല്യം h12 × V2 ആണ് രണ്ടാമത്തെ സമവാക്യത്തിന് നമുക്ക് സമാന്തര ശാഖകൾ ആവശ്യമാണ് കാരണം നമുക്ക് കറന്റ്കളും ചേർക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് I2 h22 V2 ഉണ്ട് അതിനാൽ I V ന് ആനുപാതികമാണ് അതിനാൽ ഇതൊരു ചാലകമാണ് ചാലകത h22 ആണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മൂല്യം 1 h22 ആണ് അവസാനമായി നമുക്ക് കറന്റ് നിയന്ത്രിത കറന്റ് സ്രോതസ്സുണ്ട് കാരണം I1 ഒരു കറന്റാണ് ഫലമായുണ്ടാകുന്ന I2 ഉം ഒരു കറന്റാണ് അതിനാൽ h21 ന്റെ നേട്ടം ഒരു കറന്റ് കൺട്രോൾ കറന്റ് സോഴ്സ് ഉപയോഗിച്ചാണ് ഈ പദം സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാൽ ഇതാണ് പോർട്ട് ഒന്നിൽ സീരീസ് ബ്രാഞ്ചുകൾ ഉണ്ട് പോർട്ട് രണ്ട്ൽ ഉള്ളത് സമാന്തര ശാഖകൾ ആണ് അവസാനമായി നമുക്ക് g പാരാമീറ്ററുകൾ വീണ്ടും പരിശോധിക്കാം നമുക്ക് രണ്ട് പദങ്ങളുടെ ആകെത്തുകയുള്ള രണ്ട് സമവാക്യങ്ങൾ ഓരോന്നിനും ഉണ്ട് ആദ്യ സമവാക്യം ഒരു കറന്റിലേക്ക് മാറുന്നു ഇത് രണ്ട് കറന്റ്കളുടെ ആകെത്തുകയാണ് അതിനാൽ ഇത് നടപ്പിലാക്കാൻ നമുക്ക് സമാന്തര ശാഖകൾ ആവശ്യമാണ് രണ്ടാമത്തെ സമവാക്യം വോൾട്ടേജാണ് ഇത് മറ്റ് രണ്ട് വോൾട്ടേജുകളുടെ ആകെത്തുകയാണ് അതിനാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് ഒരു ശ്രേണി സംയോജനം ആവശ്യമാണ് അതിനാൽ പോർട്ട് 1ൽ നമുക്ക് വോൾട്ടേജ് V1 ഉം കറന്റ I1 ഉം പോർട്ട് 2ൽവോൾട്ടേജ് V2 ഉം കറന്റ I2 ഉം ഉണ്ട് അതിനാൽ ആദ്യത്തേത് ഒരു കറന്റാണ് രണ്ട് ശാഖകളുടെ ആകെത്തുക കൂടാതെ നമുക്ക് V1 ന്റെ ചാലകതയെ പ്രതിനിധീകരിക്കുന്ന g11 ഉണ്ട്അല്ലെങ്കിൽ 1g11 എന്നത് റെസിസ്റ്റൻസ് പ്രതിനിധീകരിക്കുന്നു രണ്ടാമത്തേത് I1 ന്റെ ആശ്രിതത്വം I2 നൽകുന്നു അതിനാൽ ഇത് കറന്റ നിയന്ത്രിത ഉറവിടമാണ് അതിന്റെ നേട്ടം g12 ആണ് അല്ലെങ്കിൽ അതിന്റെ മൂല്യം g12 × I2 ആണ് ഇപ്പോൾ മറുവശത്തോ മറ്റേ പോർട്ടിലോ നമുക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ മറ്റ് രണ്ട് വോൾട്ടേജുകളുടെ ആകെത്തുക V2 നു തുല്യമാണ് g22 I2 വോൾട്ടേജ് കറന്റിന് ആനുപാതികമാണ് ഇത് g22 മൂല്യവും ശ്രേണിയിലുള്ളതുമായ ഒരു രജിസ്റ്റർ ഉപയോഗിച്ച് ലഭിക്കുന്നു ഇതിനൊപ്പം വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സ്രോതസ്സ് V2 g21 V1 ന് തുല്യമാണ് അതിനാൽ ഇത് g21 ന്റെ നേട്ടം ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജാണ് അതിനാൽ ഇത് g പാരാമീറ്റർ രണ്ട് പോർട്ടിന് തുല്യമായ സർക്യൂട്ട് ആണ് ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു നെറ്റ്വർക്കിനെയും തീർച്ചയായും ഏത് പാരാമീറ്ററുകളാലും പ്രതിനിധീകരിക്കാൻ കഴിയും ഈ പരാമീറ്ററുകളിൽ ചിലത് അനന്തമായ മൂല്യമുള്ളവയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾ അവ ഉപയോഗിക്കില്ല എന്നാൽ പൊതുവേ നിങ്ങൾക്ക് അവയിലേതെങ്കിലും ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ തത്തുല്യമായ സർക്യൂട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം ഇപ്പോൾ വീണ്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്ന് സൌകര്യം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒന്നുകിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ചാലകത ഉപയോഗിച്ച് കണക്കുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ നമ്മൾക്ക് കൂടുതൽ ചോയ്സുകൾ ഉണ്ട് കാരണം നമ്മൾക്ക് പോർട്ടുകൾക്ക് കൂടുതൽ വേരിയബിളുകളും മറ്റും ഉണ്ട്